പേറ്റന്റബിലിറ്റി തിരയലിന്റെ പരിമിതികൾ പേറ്റന്റബിലിറ്റി തിരയലിന് അതിന്റേതായ പരിമിതികളുണ്ട് പേറ്റന്റബിലിറ്റി തിരയലിന്റെ പരിമിതികൾ പേറ്റന്റബിലിറ്റി തിരയലിന് അതിന്റേതായ പരിമിതികളുണ്ട് ക്രോഡീകരിക്കപ്പെട്ടതോ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റാബേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതോ ആയ മുൻ ആർട്ട് പ്രമാണങ്ങൾക്കായി തിരയുക എന്നതാണ് തിരച്ചിലിന്റെ തനത് സ്വഭാവം ക്രോഡീകരിക്കപ്പെട്ടതോ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റാബേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതോ ആയ മുൻ ആർട്ട് പ്രമാണങ്ങൾക്കായി തിരയുക എന്നതാണ് തിരച്ചിലിന്റെ തനത് സ്വഭാവം അതിനാൽ ഒരു തിരച്ചിൽ നടത്തുമ്പോൾ പ്രായോഗികതലത്തിൽ സൂചിപ്പിക്കുന്നത് ഓൺലൈൻ ഡാറ്റാബേസുകൾ തിരയുന്നതിനെയാണ് അതിനാൽ ഒരു തിരച്ചിൽ നടത്തുമ്പോൾ പ്രായോഗികതലത്തിൽ സൂചിപ്പിക്കുന്നത് ഓൺലൈൻ ഡാറ്റാബേസുകൾ തിരയുന്നതിനെയാണ് അതിനാൽ ക്രോഡീകരിച്ചതും തിരയാവുന്നതും ലഭ്യമായതുമായ എന്തും തിരച്ചിൽ വിദഗ്ദ്ധന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം അതിനാൽ ക്രോഡീകരിച്ചതും തിരയാവുന്നതും ലഭ്യമായതുമായ എന്തും തിരച്ചിൽ വിദഗ്ദ്ധന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം കോഡിഫൈ ചെയ്യാത്തതോ റെക്കോർഡുചെയ്യാത്തതോ തിരച്ചിലിനായി ഓൺലൈൻ ഡാറ്റാബേസിൽ ലഭ്യമല്ലാത്തതോ ആയ മുൻകാല പേറ്റന്റ് ആർട്ട് മെറ്റീരിയലുകളുടെ എണ്ണം എത്രവേണേലും ഉണ്ടാകാം കോഡിഫൈ ചെയ്യാത്തതോ റെക്കോർഡുചെയ്യാത്തതോ തിരച്ചിലിനായി ഓൺലൈൻ ഡാറ്റാബേസിൽ ലഭ്യമല്ലാത്തതോ ആയ മുൻകാല പേറ്റന്റ് ആർട്ട് മെറ്റീരിയലുകളുടെ എണ്ണം എത്രവേണേലും ഉണ്ടാകാം എല്ലാ മുൻ കാല പേറ്റന്റ് ആർട്ട് മെറ്റീരിയലുകളും പ്രസക്തമായിരിക്കുന്നത് കൊണ്ട് അവയ്ക്കു ഒരു കണ്ടെത്തലിനെ എളുപ്പത്തിൽ നിഷ്പ്രഭമാക്കാൻ കഴിയും എല്ലാ മുൻ കാല പേറ്റന്റ് ആർട്ട് മെറ്റീരിയലുകളും പ്രസക്തമായിരിക്കുന്നത് കൊണ്ട് അവയ്ക്കു ഒരു കണ്ടെത്തലിനെ എളുപ്പത്തിൽ നിഷ്പ്രഭമാക്കാൻ കഴിയും എന്നാൽ ഒരു തിരച്ചിൽ നടക്കുമ്പോൾ ഇത് എല്ലാം ലഭ്യമാകണമെന്നില്ല എന്നാൽ ഒരു തിരച്ചിൽ നടക്കുമ്പോൾ ഇത് എല്ലാം ലഭ്യമാകണമെന്നില്ല അതിനാൽ ഒരു തിരച്ചിലും തികഞ്ഞതല്ലെന്ന് ഞങ്ങൾ പറയാറുണ്ട് അതിനാൽ ഒരു തിരച്ചിലും തികഞ്ഞതല്ലെന്ന് ഞങ്ങൾ പറയാറുണ്ട് ഒരു തികഞ്ഞ തിരച്ചിലിനായി ആരും പരിശ്രമിക്കേണ്ട കാര്യമില്ല കാരണം തിരച്ചിൽ നടത്തുമ്പോൾ നിങ്ങൾ അപ്രകാരം ഇല്ല എന്ന് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു തികഞ്ഞ തിരച്ചിലിനായി ആരും പരിശ്രമിക്കേണ്ട കാര്യമില്ല കാരണം തിരച്ചിൽ നടത്തുമ്പോൾ നിങ്ങൾ അപ്രകാരം ഇല്ല എന്ന് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത് കണ്ടെത്തലിന്റെ പ്രസക്തിയോ പുതുമയോ നഷ്ടപെടുത്തുന്ന എന്തെങ്കിലും മുൻ കാല പേറ്റന്റ് കലയുണ്ടോ എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് കണ്ടെത്തലിന്റെ പ്രസക്തിയോ പുതുമയോ നഷ്ടപെടുത്തുന്ന എന്തെങ്കിലും മുൻ കാല പേറ്റന്റ് കലയുണ്ടോ എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ അത് കണ്ടെത്താത്തിടത്തോളം അത്തരം ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിയിട്ടായിരിക്കും നിങ്ങൾ മടങ്ങുന്നത് നിങ്ങൾ അത് കണ്ടെത്താത്തിടത്തോളം അത്തരം ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിയിട്ടായിരിക്കും നിങ്ങൾ മടങ്ങുന്നത് രണ്ടാമതായി തിരച്ചിലിന്റെ ഗുണനിലവാരം നിങ്ങൾ വെളിപ്പെടുത്തലിൽ നൽകിയിട്ടുള്ള ഇൻപുട്ടിന്റെ | ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു രണ്ടാമതായി തിരച്ചിലിന്റെ ഗുണനിലവാരം നിങ്ങൾ വെളിപ്പെടുത്തലിൽ നൽകിയിട്ടുള്ള ഇൻപുട്ടിന്റെ | ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു വെളിപ്പെടുത്തൽ നിശ്ചിത നിലവാരമുള്ളതല്ലെങ്കിൽ തിരച്ചിൽ ഫലവും മികച്ചതായിരിക്കില്ല വെളിപ്പെടുത്തൽ നിശ്ചിത നിലവാരമുള്ളതല്ലെങ്കിൽ തിരച്ചിൽ ഫലവും മികച്ചതായിരിക്കില്ല മൂന്നാമതായി ചില ഡാറ്റാബേസുകളിൽ ചില പ്രധാന റഫറൻസുകൾ ഉണ്ടാകണമെന്നില്ല അവ നഷ്ടപെട്ടിട്ടുമുണ്ടാകാം മൂന്നാമതായി ചില ഡാറ്റാബേസുകളിൽ ചില പ്രധാന റഫറൻസുകൾ ഉണ്ടാകണമെന്നില്ല അവ നഷ്ടപെട്ടിട്ടുമുണ്ടാകാം നാലാമതായി നിങ്ങൾ ഉപയോഗിക്കുന്ന താക്കോൽ പദങ്ങൾ ഒരു പ്രതേക പഠന മേഖലയിലെ എല്ലാ വകഭേദങ്ങളെയും ഉൾക്കൊള്ളണമെന്നില്ല നാലാമതായി നിങ്ങൾ ഉപയോഗിക്കുന്ന താക്കോൽ പദങ്ങൾ ഒരു പ്രതേക പഠന മേഖലയിലെ എല്ലാ വകഭേദങ്ങളെയും ഉൾക്കൊള്ളണമെന്നില്ല വിമർശനാത്മകമായ ഒരു സുപ്രധാന റഫറൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാവുന്നതിന്റെ ഒരു കാരണം ഇതാണ് വിമർശനാത്മകമായ ഒരു സുപ്രധാന റഫറൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാവുന്നതിന്റെ ഒരു കാരണം ഇതാണ് അഞ്ചാമതായി നിങ്ങൾ തെറ്റായ വിഭാഗങ്ങളിൽ ആയിരിക്കും തിരയുന്നത് അഞ്ചാമതായി നിങ്ങൾ തെറ്റായ വിഭാഗങ്ങളിൽ ആയിരിക്കും തിരയുന്നത് ഇപ്രകാരമുള്ള കരണങ്ങളാൽ ഒരു തിരച്ചിൽ പലപ്പോഴും ഒരു കണ്ടെത്തലിന്റെ തികഞ്ഞ പ്രതിഫലനമാകാറില്ല ഇപ്രകാരമുള്ള കരണങ്ങളാൽ ഒരു തിരച്ചിൽ പലപ്പോഴും ഒരു കണ്ടെത്തലിന്റെ തികഞ്ഞ പ്രതിഫലനമാകാറില്ല കണ്ടെത്തലിനെ കുറിച്ച് കൂടുതൽ വിശദമായ വിശകലനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സാധുതാ പഠനം അല്ലെങ്കിൽ സാധുതാ തിരച്ചിൽ ആണ് ആവശ്യമായിരിക്കുന്നത് കണ്ടെത്തലിനെ കുറിച്ച് കൂടുതൽ വിശദമായ വിശകലനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സാധുതാ പഠനം അല്ലെങ്കിൽ സാധുതാ തിരച്ചിൽ ആണ് ആവശ്യമായിരിക്കുന്നത് സാധുതാ പഠനം പേറ്റന്റബിലിറ്റി തിരച്ചിലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അത് ഒരു കണ്ടെത്തൽ സാധുതയുള്ളതാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതിന് സഹായിക്കുന്നു സാധുതാ പഠനം പേറ്റന്റബിലിറ്റി തിരച്ചിലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അത് ഒരു കണ്ടെത്തൽ സാധുതയുള്ളതാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതിന് സഹായിക്കുന്നു പേറ്റന്റബിലിറ്റി തിരയലിന്റെ പരിമിതികളാണ് ഇവയെന്നും അതിനാൽ പേറ്റന്റബിളിറ്റി തിരയലിനെക്കുറിച്ച് യുക്തിരഹിതമായ പ്രതീക്ഷകളൊന്നും പുലർത്തേണ്ടതില്ല എന്നും ക്ലയന്റിനെ അറിയിക്കാറുണ്ട് പേറ്റന്റബിലിറ്റി തിരയലിന്റെ പരിമിതികളാണ് ഇവയെന്നും അതിനാൽ പേറ്റന്റബിളിറ്റി തിരയലിനെക്കുറിച്ച് യുക്തിരഹിതമായ പ്രതീക്ഷകളൊന്നും പുലർത്തേണ്ടതില്ല എന്നും ക്ലയന്റിനെ അറിയിക്കാറുണ്ട്